ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ആദ്യത്തെ അസൈൻമെന്റ് പരിഹരിക്കും ഇത് അസൈൻമെന്റ് 1 ആണ് അസൈൻമെന്റിന്റെ ആദ്യ പ്രശ്നം പറയുന്നു രണ്ട് ചാർജുകളും പ്ലസ് Q മൈനസ് Q എന്നിവ ഒറിജിൻ ൽ നിന്ന് x അക്ഷത്തിൽ ഒരു അകലo a ൽ സ്ഥാപിച്ചിരിക്കുന്നു ഒപ്പം മൂന്നാമത്തെ ചാർജ് Q y അക്ഷത്തിൽ അകലo y ൽ സ്ഥാപിച്ചിരിക്കുന്നു y അക്ഷത്തിലുള്ള q ചാർജിലെ ഫോഴ്സ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഇത് നോക്കാം പോസിറ്റീവ് ചാർജ് കാരണം ചാർജ് ചെറിയ q ന്റെ ഫോഴ്സ് കാണിച്ചിരിക്കുന്ന ദിശ വലിയ Q മുതൽ ചെറിയ q വരെയുള്ള ചുവപ്പ് വരിയിലായിരിക്കും അതുപോലെ ചെറിയ q യിൽ മൈനസ് Q ന്റെ ഫോഴ്സ് അതു ചെറിയ q മുതൽ വലിയ Q വരെയുള്ള പച്ച നിറത്തിലുള്ള വരയിലായിരിക്കും കൂടാതെ നെറ്റ് ഫോഴ്സ് ഈ രണ്ട് ഫോഴ്സിന്റെ സംയോജനമോ സങ്കലനമോ ആയിരിക്കും ഈ ഫോഴ്സ് ഞാൻ യഥാക്രമം F 1 F 2 എന്ന് വിളിക്കട്ടെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൂരം കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും F 1 F 2 എന്നിവയുടെ വ്യാപ്തി സമാനമായിരിക്കും അതിനാൽ നിങ്ങൾ വെക്റ്റർ സങ്കലനo ചെയ്താൽ നെറ്റ് ഫോഴ്സ് ഈ കറുത്ത അടയാളം കാണിക്കുന്ന ഇടതുവശത്തേക്ക് പോകും ഇതാണ് നെറ്റ് ഫോഴ്സ് അതിനാൽ F ഫോഴ്സ് മൈനസ് x ന് ആനുപാതികമോ നെഗറ്റീവ് x ദിശയിലോ ആയിരിക്കും എന്ന് നമ്മൾ ഇതിനകം ജ്യാമിതീയമായി പ്രതീക്ഷിക്കുന്നു നമ്മൾ കൊളംബ്സ് നിയമം എഴുതുമ്പോൾ Q 1 നും Q 2 നും ഇടയിലുള്ള F എന്ന ഫോഴ്സ് മറ്റൊന്നുമല്ലെന്ന് ഗണിതശാസ്ത്രപരമായി ഓർമിക്കാം Q 1 Q 2 ഓവർ r ക്യൂബും വെക്റ്റർ r 1 ഓവർ 4 പൈ എപ്സിലോൺ 0 എവിടെ ഞാൻ Q 2 ലെ ഫോഴ്സ് കണക്കാക്കുന്നു അത് r ആകാൻ പോകുന്നത് 1 മുതൽ 2 വരെ ആയിരിക്കും ഇത് Q 2 ന് ഫോഴ്സ് ആണ് രണ്ട് ചാർജുകളും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വിപരീത ദിശയിൽ ഫോഴ്സ് കാണാൻ കഴിയും F∝ x FQ214π0Q1Q2r3r12 ഇപ്പോൾ നമുക്ക് F 1 കണക്കാക്കാം F 1അതിനാൽ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 മാഗ്നിറ്റ്യൂഡ് Q q ഓവർ r ക്യൂബ് ആയിരിക്കും ചാർജുകൾ തമ്മിലുള്ള ദൂരം ഇവിടെ ഈ മഞ്ഞ തവിട്ടുനിറത്തിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ ഒരു സമചതുരo a സ്ക്വാർ പ്ലസ് y സ്ക്വാർ ആണ് അതിനാൽ r ക്യൂബ്ഡ് a സ്ക്വാർ പ്ലസ് y സ്ക്വാർ റൈസ് ടു 3 ബൈ 2 പോസിറ്റീവ് ചാർജ് Q മുതൽ ചെറിയ q വരെ ചുവപ്പ് കാണിക്കുകയും ആ വെക്റ്റർ y ഉം y യൂണിറ്റ് ദിശ മൈനസ് a x ആകുകയും ചെയ്യും അതാണ് ചെറിയ q യിലെ പോസിറ്റീവ് ചാർജ് Q കാരണം ഉണ്ടാകാവുന്ന F 1 ഫോഴ്സ് F114π0Qqa2y232 എനിക്ക് സമാനമായി ഇപ്പോൾ F 2 കണക്കാക്കാം F 2 1ഓവർ 4 പൈ എപ്സിലോൺ 0 ആയി മാഗ്നിറ്റ്യൂഡ് ക്യാപിറ്റൽ Q സ്മോൾ q ഓവർ ദൂരം ഒന്നുതന്നെയാണെന്നു എഴുതുകയും ചെയ്യും അതിനാൽ ഞാൻ വീണ്ടും a സ്ക്വയർ പ്ലസ് y സ്ക്വയർ റൈസ് ടു 3 ബൈ 2എഴുതുകയും ചെയ്യും എന്നിരുന്നാലും ഇപ്പോൾ കാണിക്കുന്നത് ഫോഴ്സിന്റെ ദിശ പച്ച നിറത്തിലുള്ള വെക്റ്ററിന്റെ ദിശയിലാണ് അത് ചെറിയ q മുതൽ മൈനസ് Q വരെ കാണിക്കുന്നു അത് y പോയിന്റ് y j അല്ലെങ്കിൽ y അക്ഷത്തിൽ ഒരു പോയിന്റ് മുതൽ മൈനസ് x അക്ഷത്തിൽ ഒരു പോയിന്റ് വരെ ആണ് അതിനാൽ ഇത് മൈനസ് a x മൈനസ് y y ആകാൻ പോകുന്നു ഇത് ചെറിയ q മുതൽ മൈനസ് ക്യാപിറ്റൽ Q ചാർജ് വരെയുള്ള വെക്റ്ററാണ് ഇത് ആ വെക്റ്ററാണ് F214π0Qqa2y232 അതിനാൽ നെറ്റ് ഫോഴ്സ് ഈ രണ്ട് വെക്റ്ററുകളുടെയും ആകെത്തുകയാണ് അതിനാൽ ഈ രണ്ട് നെറ്റ് ഫോഴ്സ് F ആകുകയാണെങ്കിൽ y ഉൾപ്പെടുന്ന നിബന്ധനകൾ റദ്ദാക്കുകയും എനിക്ക് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 Q q ഓവർ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ റൈസ് ടു 3 ബൈ 2 മടങ്ങ് a x ന് തുല്യമാവുകയും ചെയ്യുന്നു നെറ്റ് ഫോഴ്സ് മൈനസ് x യൂണിറ്റ് ദിശയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ പ്രശ്നം 1 ചെയ്തു F14π0Qqa2y232 പ്രശ്നo 2 ലേക്ക് വരാം ഒരേ ചിഹ്നത്തിന്റെ 12 ചാർജുകളും മാഗ്നിറ്റ്യൂഡ് ക്യാപിറ്റൽ Q വും തുല്യ അകലത്തിൽ R ആരം വളയത്തിൽ സ്ഥാപിക്കുന്ന അതിനാൽ ഞാൻ ആരം R ന്റെ ഈ വളയo എടുക്കുകയാണെങ്കിൽ അതിൽ 12 ചാർജുകൾ തുല്യ അകലത്തിൽ സ്ഥാപിക്കുന്നു അതിനാൽ നമുക്ക് ഇത് 1 2 3 4 5 6 7 എന്നിവ എവിടെയോ ആയിരിക്കും 8 9 10 11 12 എന്നിങ്ങനെ എല്ലാം 30 ഡിഗ്രി കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു മൂന്നാമത്തേത് ഇവിടെ ഉണ്ടാകും അതിനാൽ ഞാൻ ഇത് 4 5 6 7 എന്നിവ വരയ്ക്കാം അതിനാൽ ഞാൻ ഇത് വീണ്ടും ഉണ്ടാക്കട്ടെ എനിക്ക് ഈ വളയo ഉണ്ടെങ്കിൽ ഞാൻ ചാർജ് 1 ൽ നിന്ന് 30 ഡിഗ്രിയിൽ ആരംഭിക്കും ഒരു ചാർജ് 2 കൂടി ഉണ്ട് 60 ഡിഗ്രി കൂടി 3 കൂടി ഉണ്ടാകും 4 ഇവിടെ 5 120 ഡിഗ്രിയിൽ 6 ന് 150 7 ന് 180 8 ന് 210 9 ന് 240 10 ന് 270 11 ന് 300 ഉം 12 ന് 330 ഉം അതിനാൽ ഈ 12 ചാർജുകളുണ്ട് ഇവിടെ ഓരോ പോസിറ്റീവ് ചാർജിനും എതിർവശത്ത് ഒരു ചാർജ് ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക ഓരോ ചാർജിനും എതിർവശത്ത് ഒരു ചാർജ് ഉണ്ട് ഇവിടെ ഓരോ ചാർജിനും എതിർ ചാർജിൽ ഒരു ചാർജ് ഉണ്ട് അതിനാൽ ഞാൻ കണക്കാക്കേണ്ട ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് x y തലം അതിനാൽ ഈ x y തലം നമുക്ക് എഴുതാം z അക്ഷത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചെറിയ q ചാർജിൽ ഫോഴ്സ് കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചുവന്ന സർക്കിൾ ചാർജ് നമ്പർ 1 ഉം ചാർജ് നമ്പർ 7 ഉം ഞാൻ ഏടുക്കുന്നുവെന്ന് നമുക്ക് പറയാം ഈ രണ്ട് ചാർജുകൾ മൂലമുള്ള ഫോഴ്സ് കാണിച്ചിരിക്കുന്ന അടയാളത്തിലെന്നപോലെ ആയിരിക്കും ഇത് വികർഷണം ആയിരിക്കും ദൂരങ്ങൾ ഒന്നുതന്നെയാണ് ഇപ്പോൾ ഈ ചാർജ് ഈ പ്ലസ് Q ക്യാപിറ്റൽ Q R അകലെയാണ് ഇത് ഉയരം z ആണ് അതിനാൽ ഈ ദൂരം ഡയഗണൽ ദൂരം z സ്ക്വാർ പ്ലസ് R സ്ക്വാർ ആണ് അതിനാൽ ചുവന്ന അടയാളങ്ങളായി കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഫോഴ്സ് ഒരേ അളവിലുള്ളതായിരിക്കും അതിനാൽ തിരശ്ചീന ഘടകങ്ങൾ റദ്ദാക്കാൻ പോകുന്നു കൂടാതെ നെറ്റ് ഫോഴ്സ് ഈ നെറ്റ് ഫോഴ്സ് മായ്ക്കാൻ എന്നെ അനുവദിക്കും അതിനാൽ ഞാൻ ഒരു വെക്റ്റർ തുക എടുത്താൽ z ദിശയിലായിരിക്കുo അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ നെറ്റ് ഫോഴ്സ് z ദിശയിലായിരിക്കുമെന്ന് ജ്യാമിതീയമായി ഞാൻ വാദിച്ചു ഞാൻ ചെയ്യുന്നത് ഓരോ ചാർജ് ക്യാപിറ്റൽ Q കാരണം ഓരോ ഫോഴ്സിന്റെയും z ഘടകം ഞാൻ കണക്കാക്കി അവയെ കൂട്ടിച്ചേർക്കും അതിനാൽ ഇപ്പോൾ ചാർജ്ജ് കാരണം ഫോഴ്സ് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 Q q ഓവർ z സ്ക്വയർ പ്ലസ് r സ്ക്വയറാകാൻ പോകുന്നു അത് ചുവന്ന അടയാളം കാണിക്കുന്ന ലംബ ഘടകമാണ് z ഓവർ സ്ക്വയർ റൂട്ട് z സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഇത് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 Q q z സ്ക്വയർ പ്ലസ് R സ്ക്വയർ റൈസ് ടു 3 ബൈ 2 തുല്യമാണ് നെറ്റ് അതിന്റെ 12 ചാർജുകളുടെ നെറ്റ് ഫോഴ്സ് കണക്കാക്കാൻ പോകുന്നു നെറ്റ് ഫോഴ്സ് F ആകാൻ പോകുന്നു 12 മടങ്ങ് അതിനാൽ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 12 Q q z ഓവർ z സ്ക്വയർ R സ്ക്വയറും റൈസ് ടു 3 ബൈ 2 F14π0Qqz2R2zz2R214π0Qqzz2R232 Fnet14π012Qqzz2R232 Z 0 ലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക അതിനർത്ഥം ഞാൻ ഈ ചാർജ് Q കേന്ദ്രത്തിൽ വലിയ ചുവന്ന സർക്കിളിൽ കാണിക്കുന്നുവെങ്കിൽ എതിർവശങ്ങളിൽ നിന്നുള്ള ഫോഴ്സ് പരസ്പരം റദ്ദാക്കുകയും നെറ്റ് ഫോഴ്സ് 0 ആകുകയും ചെയ്യും ഇത് തീർച്ചയായും ഉത്തരമാണ് ഈ ക്യാപിറ്റൽ Q ജോഡി ആയിരിക്കുന്നതിനാൽ തിരശ്ചീന ഘടകങ്ങളെല്ലാം റദ്ദാക്കുന്നു പ്രശ്നo 3 ആരം R ന്റെ നേർത്ത ഡിസ്ക് x y തലം കേന്ദ്രത്തിൽ ഉത്ഭവസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ R ന്റെ ആരം R ന്റെ നേർത്ത ഡിസ്ക് നമ്മൾ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അത് x y തലം ആണ് അതിനാൽ എനിക്ക് ഈ തലം x y തലം ആക്കാൻ കഴിയും ഇത് a z ആക്സിസ് ആണ് ഡിസ്ക് ഒരു ഉപരിതല ചാർജ് വഹിക്കുന്നു സിഗ്മ സിഗ്മ0 ഓവർ R അതിനാൽ ഞാൻ ആർ വേഴ്സസ് സിഗ്മ ആർ ഈ പ്ലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വഹിക്കുന്നത് സിഗ്മ0 ഓവർ R അതിനാൽ 0 ന് തുല്യമായ r എന്നത് അനന്തമായിത്തീരും തുടർന്ന് അത് R ന് 1 ആയി കുറയുകയും R ക്യാപിറ്റൽ R ന് തുല്യമാവുകയും ചെയ്യുന്നു ഇത് സിഗ്മ0 ഓവർ ക്യാപിറ്റൽ R അതിനാൽ നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ചാർജ് സാന്ദ്രത കുറയുന്നു എന്നിരുന്നാലും നെറ്റ് ചാർജ് പരിമിതമാകും നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും നെറ്റ് ചാർജ് ഞാൻ ഈ ഡിസ്ക് എടുക്കുന്നുവെന്ന് കരുതുക ഇത് ഈ വശത്താണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫോഴ്സ് കണക്കാക്കും കൂടാതെ ചുവപ്പു നിറച്ച ഈ വൃത്തം ചെറിയ r കനം d r എന്നിവ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ വളയം ഞാൻ എടുക്കുന്നു അപ്പോൾ ഈ റിങ്ങിന്റെ വിസ്തീർണ്ണം 2 pi r d r ഉം ചാർജുകൾ വഹിക്കുന്ന ചാർജുകൾ 2 pi r d r ഉം ആയിരിക്കും ഉപരിതല ചാർജ് ഡെൻസിറ്റി സിഗ്മ സിഗ്മ0 ഓവർ R അത് 2 pi സിഗ്മ0 d r തുല്യമാണ് dr×0r2π0dr അതിനാൽ ഇത് വഹിക്കുന്ന മൊത്തം ചാർജ് ഈ 2 പൈ സിഗ്മ 0 യുടെ അവിഭാജ്യ ഘടകമാണ് 0 മുതൽ r വരെയുള്ള സ്ഥിരമായ സംയോജിതo ഇത് 2 പൈ സിഗ്മ0 R ആണ് അതിനാൽ ചാർജ് സാന്ദ്രത വർദ്ധിക്കുന്നുണ്ടെങ്കിലും r 0 ന് തുല്യമാണ് നെറ്റ് ചാർജുകൾ ഇപ്പോഴും പരിമിതമാണ് കാരണം ഈ സിഗ്മയ്ക്ക് പ്രത്യേക ആശ്രയത്വം ഉണ്ട് q2π00Rdr2π0R ഇപ്പോൾ പ്രശ്നം അറിയാൻ ആഗ്രഹിക്കുന്നത് വളയത്തിന്റെ അക്ഷത്തിൽ z പോയിന്റ് ഉയരത്തിൽ ഒരു പോയിന്റ് ചാർജ് q സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ നമ്മൾ ചെയ്യുന്നത് മുകളിലുള്ള ചിത്രത്തിൽ കറുപ്പ് കാണിച്ചിരിക്കുന്ന z അക്ഷത്തിൽ ഒരു ചാർജ് ചെറിയ q ഇവിടെ ഇടുന്നു എന്താണ് ഇതിന്റെ ഫോഴ്സ് ചാർജിലെ ഫോഴ്സ് ആകാൻ പോകുന്നു മൊത്തം ചാർജ് കണക്കാക്കുന്നതിൽ ഞാൻ ചെയ്തതുപോലെ ഒരു ചെറിയ വളയം എടുക്കുകയാണെങ്കിൽ ആരം r കനം d r എന്നിവയുള്ള ഒരു ചെറിയ വളയം എടുത്ത് ഈ ചെറിയ q ചാർജിൽ ഫോഴ്സ് കണക്കാക്കുന്നുവെങ്കിൽ ഒരു വശത്ത് ഓരോ ചാർജിനും ഒരു വശത്ത് ചെറിയ ചാർജും മറുവശത്ത് തുല്യ ചാർജും ഉണ്ടെന്ന് വീണ്ടും ശ്രദ്ധിക്കുക അതിനാൽ ഈ ചാർജുകൾ ജോഡികളായി വരുന്നു q ലെ നെറ്റ് ഫോഴ്സ് ഞാൻ കണക്കാക്കിയാൽ പച്ച അടയാളങ്ങൾ കാണിക്കുന്നത് പോലെ ഇതായിരിക്കും അവയുടെ തിരശ്ചീന ഘടകം റദ്ദാക്കപ്പെടും നിങ്ങൾക്ക് ഇത് വിക്ടോറിയൽ ആയും ചെയ്യാം അത് കാണിക്കാൻ എന്നെ അനുവദിക്കുക ഞാൻ ഒരു ചെറിയ ചാർജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് x അക്ഷത്തിൽ പറയാം ഈ ചാർജ് അത് ചെറിയ d q ആണെന്ന് പറയട്ടെ അപ്പോൾ ഈ d q മൂലമുള്ള ഫോഴ്സ് d F ആകാൻ പോകുന്നു 1 ഓവർ 4 pi എപ്സിലോൺ 0 q മടങ്ങ് dq ഓവർ r സ്ക്വയർ പ്ലസ് z സ്ക്വയറിന് തുല്യമായിരിക്കും ഇത് ഇവിടെ വെക്റ്ററിൽ നിന്ന് ആയിരിക്കും ഇവിടെ dq z ദിശയിലുള്ള ചാർജ് z ദിശയിൽ z ആകും മൈനസ് x x ഉം ഈ x മൂല്യം ചെറിയ R ഉം ആണ് dF14π0qdzr2z232zz rx മറുവശത്തെ ചാർജ് കാരണം സമാനമായ ഒരു ഫോഴ്സ് നിലവിലുണ്ട് ആ ഫോഴ്സ് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q d q ഓവർ r സ്ക്വയർ പ്ലസ് z സ്ക്വയർ തവണ ആയിരിക്കും ക്ഷമിക്കണം ഇത് ചെറിയ r തവണ ആയിരിക്കണം ഇത് ഒരു വെക്റ്റർ മുകളിൽ എടുക്കുമ്പോൾ ഇത് 3 ബൈ 2 വരെ ആയിരിക്കണം ഇവിടെയും ഇത് 3 ബൈ 2 മടങ്ങ് z z ആണ് ഇടത് വശത്ത് ഈ ചാർജിന്റെ സ്ഥാനം മൈനസ് r x അതിനാൽ ഇത് പ്ലസ് r x ആയിരിക്കും നിങ്ങൾ 2 ഘടകങ്ങൾ ചേർത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും x ഘടകങ്ങൾ റദ്ദാക്കുക വ്യത്യസ്ത നിറത്തിൽ x ഘടകങ്ങൾ റദ്ദാക്കുന്നു അതിനാൽ നെറ്റ് ഘടകം z ആണ് dF14π0qdzr2z232zzrx അതിനാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് z ഘടകo എന്താണ് നിങ്ങൾ ഈ രണ്ട് ചാർജുകൾ ചേർക്കുന്നു ഇത് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q d q ഓവർ r സ്ക്വയർ പ്ലസ് z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 മടങ്ങ് z z ദിശയിൽ ചാർജുകളിൽ ഒന്ന് കാരണം രണ്ട് തവണ അതിനാൽ നമ്മൾ കാണുന്നത് z ഘടകം മാത്രമാണ് സംഭാവന ചെയ്യുന്നത് അതിനാൽ ഓരോ ചെറിയ d q ക്കും z നൽകുന്നത് എടുത്ത് സമന്വയിപ്പിച്ചാൽ ഈ വളയം കാരണം എനിക്ക് മൊത്തം ഫോഴ്സ് ലഭിക്കും 14π0qdzr2z232z z ഇപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q തവണ d q സംയോജിപ്പിച്ചിരിക്കുന്നു അതായത് 2 pi sigma 0 d r ആകാൻ പോകുന്ന ഈ മുഴുവൻ റിംഗിന്റെയും ചാർജ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു ഇത് നമ്മൾ നേരത്തെ കണക്കാക്കിയത് r സ്ക്വയർ z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 z ദിശയിൽ ഈ വളയം കാരണം ഞാൻ r ആരം എടുത്ത നെറ്റ് ഫോഴ്സ് ആണ് അതിനാൽ ഇത് r മുതൽ 0 വരെ ക്യാപിറ്റൽ R ലേക്ക് സമന്വയിപ്പിക്കും അതിനാൽ നെറ്റ് ഫോഴ്സ് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 q ന് തുല്യമാണ് അപ്പോൾ എനിക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കാം എനിക്ക് 2 പൈ സിഗ്മ0 d r z ഇവിടെ z സ്ക്വയർ പ്ലസ് r സ്ക്വയർ റൈസ് ടു 3 ബൈ 2 ഇന്റഗ്രേഷൻ 0 മുതൽ ക്യാപിറ്റൽ R വരെ ഇത് 2 എപ്സിലോൺ സിഗ്മ0 ആയി മാറുന്നു കാരണം ഇവിടെ ഈ 2 പൈ റദ്ദാക്കുന്നത് നിങ്ങൾക്ക് 2 സിഗ്മ0 z ഇന്റഗ്രേഷൻ 0 മുതൽ R d r ഓവർ z സ്ക്വയർ പ്ലസ് r സ്ക്വയർ 3 ബൈ 2 എടുക്കുക z ടാൻജെന്റ് തീറ്റ അതിനാൽ നെറ്റ് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് സിഗ്മ 0 z ഓവർ 2 എപ്സിലോൺ 0 ഇന്റഗ്രേഷൻ തീറ്റ 0 ടാൻ ഇൻവെർസ് ക്യാപിറ്റൽ R ഓവർ z d r തുല്യമാണ് z സെക്കന്റ് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഓവർ z ക്യൂബ്ഡ് അല്ലെങ്കിൽ ഇത് z ക്യൂബ് സെക്കന്റ് ക്യൂബ് തീറ്റ ഡി തീറ്റ F14π0qz0R2π0drz2r2320z200Rdrz2r232 Let rztan θ F0z200tan 1Rzzsec2θdθz3sec3 നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ z റദ്ദാക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 ഓവർ z അതിനാൽ ഇത് സിഗ്മ0 ഓവർ 2 എപ്സിലോൺ 0 1 ഓവർ z ന് ആയി മാറുന്നു ഇത് എനിക്ക് തീറ്റ സൈൻ തീറ്റയുടെ കോസൈൻ നൽകുന്നു ഇത് 0 മുതൽ ടാൻ വിപരീത ഇൻവെർസ് R ഓവർ z ലേക്ക് പോകുന്നു ഇത് സിഗ്മ0 തുല്യമാണ് 2 എപ്സിലോൺ 0 z R ഓവർ സ്ക്വാർ റൂട്ട് R സ്ക്വാർ പ്ലസ് z സ്ക്വാർ അടുത്ത ട്യൂട്ടോറിയലിൽ പ്രശ്നo 4 മുതൽ 9 വരെയുള്ള അടുത്ത സെറ്റ് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കും